ഇപ്പോൾ നമ്മൾ മറ്റൊരു സിദ്ധാന്തത്തിലേക്ക് നോക്കുന്നു അത് തെവെനിൻThevenin's സിദ്ധാന്തത്തിന്റെ ഇരട്ടയായി കണക്കാക്കാം ഇത് നോർട്ടന്റെNorton's സിദ്ധാന്തം എന്നറിയപ്പെടുന്നു തെവെനിൻ സിദ്ധാന്തം നൽകിയതുപോലെ ഒരു വോൾട്ടേജ് സ്രോതസ്സും ഒറ്റ സീരീസ് പ്രതിരോധവും ഉള്ള രണ്ട് ടെർമിനലുകളിൽ സങ്കീർണ്ണമായ ഒരു സർക്യൂട്ടിന്റെ പ്രാതിനിധ്യം ആണ് അതുപോലെതന്നെ നോർട്ടന്റെ സിദ്ധാന്തം രണ്ട് ടെർമിനലുകളിൽ തുല്യമായ സർക്യൂട്ട് നൽകും അതിൽ ഒരൊറ്റ കറന്റ് സ്രോതസ്സും ഒറ്റ പ്രതിരോധവും സമാന്തരമായി ഉൾപ്പെടുന്നു ഈ തത്തുല്യമായതിന്റെ ഡെറിവേഷൻ തെവെനിൻ തത്തുല്യമായതിന്റെ ഡെറിവേഷനു സമാനമാണ് അതിനാൽ നമുക്ക് സ്വതന്ത്ര സ്രോതസ്സുകൾ അടങ്ങുന്ന ഒരു നെറ്റ്വർക്ക് N ഉണ്ടെന്ന് പറയാം ഞാൻ അവയെ ഇതുപോലുള്ള ഒരൊറ്റ സ്രോതസ്സും റെസിസ്റ്ററുകൾ ലീനിയർ കൺട്രോൾ സ്രോതസ്സുകൾ എന്നിവ ഉപയോഗിച്ച് കാണിക്കും അത് മറ്റേതെങ്കിലും സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ ഇതിനെ എന്റെ സർക്യൂട്ട് എന്ന് വിളിക്കട്ടെ ഇപ്പോൾ നമുക്ക് വേണ്ടത് 1 1 പ്രൈം എന്നീ ടെർമിനലുകളിൽ ഈ സർക്യൂട്ട് N ന്റെ പ്രതിനിധാനം ആണ് നിങ്ങൾ അതിലൂടെ കണക്റ്റുചെയ്യുന്നത് പരിഗണിക്കാതെ തന്നെ സർക്യൂട്ട് ഒരു സ്റ്റാൻഡ് ഇൻ ആകാം ഇപ്പോൾ തെവെനിന്റെ തത്തുല്യമായത് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള നിലവിലെ സ്രോതസ്സു ഉപയോഗിച്ച് നമ്മൾ ഇത് മാറ്റിസ്ഥാപിക്കും ഇവിടെ തൽക്ഷണം നമ്മൾ എന്തുചെയ്യും ഈ വോൾട്ട് VL ആണെന്നും ഈ കറന്റ് IL ആണെന്നും ഞാൻ വീണ്ടും പറയട്ടെ ഞാൻ അതിനെ ഒരു വോൾട്ടേജ് സ്രോതസ്സു ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ സർക്യൂട്ട്ൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വോൾട്ടേജിന്റെ മൂല്യമായ VL എന്നത് ഉപയോഗിച്ച് ഞാൻ വോൾട്ടേജ് സ്രോതസ്സ് മുഴുവനും മാറ്റിസ്ഥാപിക്കും നമ്മൾ മുമ്പ് കാണുന്നത് പോലെ ഡെറിവേഷൻ VL എന്താണെങ്കിലും അത് സ്വതന്ത്രമായിരിക്കും അതിനാൽ ഇത് ഏത് സർക്യൂട്ടിനും എന്തിനും നിങ്ങൾ ബന്ധിപ്പിക്കുന്നനും ബാധകമാണ് വീണ്ടും ഇത് നമ്മൾ തുല്യമായത് കണക്കാക്കുന്ന സർക്യൂട്ടാണ് ഈ സർക്യൂട്ടിന് സ്വതന്ത്ര സ്രോതസ്സുകളും ലീനിയർ റെസിസ്റ്ററുകളും ലീനിയർ കൺട്രോൾ ഉറവിടങ്ങളും മാത്രമേ ഉണ്ടാകൂ ഇത് എന്തുമാകാം അത് എന്താണെന്നത് പ്രശ്നമല്ല കാരണം അത് എന്തുതന്നെയായാലും ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ആ നിർദ്ദിഷ്ട മൂല്യത്തിന്റെ കറന്റ് സ്രോതസ്സ് അത് ഉണ്ടാക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് എന്നിവ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അവസാനമായി ഇതിനായി നമ്മൾ എന്ത് കണ്ടെത്തിയാലും ഇതിന് തുല്യമായത് VL ന്റെ മൂല്യത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കും അതിനാൽ നമുക്ക് ഇത് എടുത്ത് മുമ്പത്തെപ്പോലെ തുടരാം ഇപ്പോൾ ഞാൻ സർക്യൂട്ട് നൽകി IL കണക്കാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുയാണ് ഇപ്പോൾ അകത്ത് സ്വതന്ത്രമായ സ്രോതസ്സുകളുണ്ട് പുറത്ത് ഒരു സ്വതന്ത്ര സ്രോതസ്സുണ്ട് അത് VL ആണ് IL ന് വേണ്ടി ഞാൻ എങ്ങനെ ഇവ പരിഹരിക്കും എനിക്ക് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കാം എനിക്ക് ഇത് രണ്ട് കേസുകളുടെ സൂപ്പർ പൊസിഷൻ ആയി കണക്കാക്കാം സൂപ്പർ പൊസിഷൻ സൂചിപ്പിക്കാൻ ഞാൻ ഇവിടെ ഒരു സൂചിപ്പിക്കും രണ്ട് കേസുകൾ ഏതൊക്കെയാണ് ആന്തരിക ഉറവിടങ്ങൾ സജീവമായതും VL 0 ആയി സജ്ജീകരിച്ചിരിക്കുന്നതുമായ ഒന്ന് അതായത് VL ഒരു ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതുപയോഗിച്ച് ഞാൻ IL1 കണക്കാക്കും മറ്റൊന്ന് ആന്തരിക സ്വതന്ത്ര സ്രോതസ്സുകൾ അസാധുവാകുകയോ നിർജ്ജീവമാക്കുകയോ ചെയ്താൽ എനിക്ക് ഈ VL മാത്രമേ സജീവമാകൂ അതുവെച്ച് ഞാൻ IL2 കണക്കാക്കുന്നു യഥാർത്ഥ കേസിലെ എന്റെ IL ഈ രണ്ട് കേസുകളുടെ ആകെത്തുക ആയ IL1 IL2 ആയിരിക്കും അടിസ്ഥാനപരമായി എനിക്ക് ഈ സ്വതന്ത്ര സ്രോതസ്സുകൾ VL ഉം കൂടാതെ ആന്തരിക സ്വതന്ത്ര സ്രോതസ്സുകളും ഉണ്ട് ഒരു സാഹചര്യത്തിൽ ഞാൻ എല്ലാ ഇന്റേണൽ ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളും സജീവമാക്കുന്നു എന്നാൽ VL അസാധുവാക്കുന്നു മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും നിർജ്ജീവമാക്കി VL മാത്രം സജീവമാക്കുന്നു ഇനി നമുക്ക് പടിപടിയായി പോകാം ഈ സാഹചര്യത്തിൽ എന്താണ് ഞാൻ ചെയ്തത് എല്ലാ ആന്തരിക സ്വതന്ത്ര സ്രോതസ്സുകളും സജീവമായിരിക്കുക എന്നതാണ് അതിനാൽ ഇവയെല്ലാം സജീവമാണ് കൂടാതെ ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് തത്തുല്യമായത് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈ ടെർമിനലുകൾ 1 1 പ്രൈം എന്നിവ ഞാൻ അവസാനിപ്പിക്കുന്നു കാരണം 0 ന് തുല്യമായ V എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ലഭിക്കുന്നത് എനിക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് ആ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഞാൻ കറന്റ് അളക്കുന്നു ഇവിടെ ഞാൻ അതിനെ IL1 എന്ന് വിളിച്ചു എന്നാൽ ഇതിനെ സാധാരണയായി IN എന്നും വിളിക്കുന്നുണ്ട് നോർട്ടൺ കറന്റ് അതായത് ഇത് നോർട്ടൺ കറന്റ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ് അതിനാൽ ഞാൻ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് 1 1 പ്രൈം ടെർമിനേറ്റ് ചെയ്യുകയും ഷോർട്ട് സർക്യൂട്ടിലെ കറന്റ് 1 മുതൽ 1 പ്രൈം വരെയുള്ള ശരിയായ ദിശയിൽ അളക്കുകയും ചെയ്യുന്നു അത് എനിക്ക് ഷോർട്ട് സർക്യൂട്ട് കറന്റ് അല്ലെങ്കിൽ നോർട്ടൺ കറന്റ് നൽകുന്നു എല്ലാ ആന്തരിക സ്രോതസ്സുകളും അസാധുവാകുകയും സ്വതന്ത്ര സ്രോതസ്സുകൾ അസാധുവാകുകയും ചെയ്യുന്ന രണ്ടാമത്തെ കേസ് ഞാൻ നോക്കുകയാണ് നമ്മൾക്ക് ലീനിയർ റെസിസ്റ്ററും ലീനിയർ കൺട്രോൾ സ്രോതസ്സുകളും മാത്രമേ ഉള്ളൂ ലീനിയർ റെസിസ്റ്ററുകളും ലീനിയർ കൺട്രോൾ സ്രോതസ്സുകളും അടങ്ങുന്ന ഒരു നെറ്റ്വർക്ക് ഈ രണ്ട് ടെർമിനലുകളിൽ നിന്നുള്ള ഒരു റെസിസ്റ്റർ പോലെയാണെന്ന് നമ്മൾക്കറിയാം ഈ അസാധുവായ കേസ് ഞാൻ പരിഗണിക്കുകയും ഇവിടെ നോക്കുകയും ചെയ്യുന്നു ഇത് എല്ലായ്പ്പോഴും ചില റെസിസ്റ്റർ പോലെ കാണപ്പെടുന്നു അതിന്റെ അർത്ഥം എന്തെന്നാൽ ഞാൻ Vtest പ്രയോഗിച്ച് Itest അളക്കുകയാണെങ്കിൽ Vtest Itest ചില സ്ഥിരാങ്കങ്ങൾ ആയിരിക്കും അത് Rനു തുല്യമായി നൽകുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതിനെ RN നോർട്ടൺ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും അതിനാൽ ഇത് നോർട്ടൺ റെസിസ്റ്റൻസ് RN ഉള്ളതിന് തുല്യമാണ് ഇത് ഈ VL കൊണ്ട് നയിക്കപ്പെടുകയും ആ ദിശയിൽ IL2 അളക്കുകയും ചെയ്യുന്നു അതിനാൽ VL നെ RN കൊണ്ട് ഹരിക്കുക ആണെങ്കിൽ വ്യക്തമായി IL2 ആയിരിക്കും കിട്ടുന്നത് മൊത്തം കറന്റ് ലഭിക്കുന്നതിന് ഷോർട്ട് സർക്യൂട്ട് കറന്റിനൊപ്പം ഇത് സൂപ്പർ ഇംപോസ് ചെയ്യണം ഞാൻ അത് പിന്നീട് ചെയ്യും തെവെനിൻ തുല്യമായതിന് നമ്മൾ കണക്കാക്കിയ കാര്യം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ തെവെനിൻ തത്തുല്യത്തിലും ഒരു പ്രതിരോധം Rth ഉണ്ടായിരുന്നു അത് ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു നമ്മൾ ആന്തരിക ഉറവിടങ്ങൾ നിർജ്ജീവമാക്കി പ്രതിരോധം നോക്കുന്നത് കണ്ടെത്തി ഒരേയൊരു വ്യത്യാസം അവിടെ നമ്മൾ ഒരു കറന്റ് പ്രയോഗിക്കുന്നു ഇവിടെ നമ്മൾ ഒരു വോൾട്ടേജ് പ്രയോഗിക്കുന്നു പക്ഷേ അത് പ്രശ്നമല്ല നിങ്ങൾ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് പ്രയോഗിക്കുകയാണെങ്കിൽ Vtest Itest അനുപാതം അതേപടി തുടരും അതിനാൽ നോർട്ടന്റെ തത്തുല്യമായ നൊട്ടേഷനുമായി പൊരുത്തപ്പെടാൻ ഞാൻ ഇതിനെ RN എന്ന് വിളിക്കുന്നുവെങ്കിലും അത് തെവെനിൻ പ്രതിരോധത്തിന് കൃത്യമായി തുല്യമാണ് അതായത് തെവെനിൻ പ്രതിരോധവും നോർട്ടൺ പ്രതിരോധവും ഒന്നുതന്നെയാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഫുൾ സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മുടെ സൂപ്പർ പൊസിഷനിലേക്ക് പോകാം അതായത് സ്വതന്ത്ര സ്രോതസ്സുകൾ സജീവമായതിനാൽ നമ്മൾക്ക് എല്ലാ ഘടകങ്ങളും നിലവിലുണ്ട് നമ്മൾ VL പ്രയോഗിച്ചാൽ നമുക്ക് ഒരു നിശ്ചിത കറന്റ് IL ഉണ്ട് നമ്മൾ സൂപ്പർ പൊസിഷനിൽ എടുത്ത രണ്ട് കേസുകളിൽ നിന്നും ഈ IL എന്നത് IN ഷോർട്ട് സർക്യൂട്ട് കറന്റ് അല്ലെങ്കിൽ നോർട്ടൺ കറന്റ് VL നെ RN കൊണ്ട് ഹരിച്ചാൽ കിട്ടും എന്ന് നമുക്ക് അറിയാം ഇപ്പോൾ ഈ മുഴുവൻ കാര്യവും ഒരു ലളിതമായ തത്തുല്യമായതു ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാം ഈ പ്രത്യേക പദവുമായി പൊരുത്തപ്പെടുന്ന കറണ്ട് N എനിക്ക് അവിടെ വോൾട്ടേജ് VL ഉണ്ട് ഈ പദം ലഭിക്കുന്നതിന് ഞാൻ പ്രതിരോധം RN കണക്റ്റുചെയ്യുന്നു അതിനാൽ ഇവിടെ ഒഴുകുന്ന വൈദ്യുതധാര എന്നത് VL നെ RN കൊണ്ട് ഹരിച്ചതാണെന്ന് നിങ്ങൾ വ്യക്തമായി കാണുന്നു ആ വഴി ഒഴുകുന്ന കറന്റ് IN ആണ് അതായത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് അതിനാൽ ഇവിടെ ഒഴുകുന്ന കറന്റ് മറ്റൊന്നുമല്ല ഈ കറന്റ് IN അതായത് VL നെ RN കൊണ്ട് ഹരിച്ചാൽ ഇത് കിട്ടും തെവെനിൻ തത്തുല്യമായത് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നമ്മൾക്ക് VL എന്നത് Vth IL Rth ആയി ലഭിക്കും നമ്മൾക്ക് ഇവിടെ സമാനമായ ഒരു സമവാക്യമുണ്ട് അവിടെ നമുക്ക് ഒരു വോൾട്ടേജ് Vth നെ Rth റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കണക്കാക്കാൻ പറ്റും ഇവിടെ അവൻ Rth ന് തുല്യമായ ഒരു റെസിസ്റ്റൻസ് RN IN കറൻറ്ൻറെ ഉറവിടം ഉപയോഗിച്ച് ഔട്ട്പുട്ട് കറന്റ് IL നെ അനുകരിക്കുന്നു ഈ പ്രത്യേക സർക്യൂട്ട് ടെർമിനലുകൾ 1 1 പ്രൈം എന്നിവയിൽ തുല്യമാണ് ഇത് 1 1 പ്രൈം ആണ് ഇത് നെറ്റ്വർക്ക് N അതായത് നോർട്ടന്റെ തുല്യമായ സർക്യൂട്ട് എന്നറിയപ്പെടുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് തെവെനിനിന്റെ തത്തുല്യമായവയുടെ ഇരട്ടയാണ് അവിടെ നമ്മൾക്ക് ഒരു വോൾട്ടേജ് ഉറവിടമുണ്ട് ഇവിടെ നമ്മൾക്ക് ഒരു കറൻറ് ഉറവിടമുണ്ട് നമുക്ക് നോർട്ടൺ സിദ്ധാന്തം തെവെനിൻ സിദ്ധാന്തത്തിന് സമാനമായി തുടരാം സ്വതന്ത്ര സ്രോതസ്സുകളുള്ള ഏത് സർക്യൂട്ടും ലീനിയർ റെസിസ്റ്ററുകളായ ലീനിയർ ഘടകങ്ങളും നിയന്ത്രിത സ്രോതസ്സുകളും ഉള്ളവയെ രണ്ട് ടെർമിനലുകളിൽ കറൻറ് സ്രോതസ്സു വഴിയും റെസിസ്റ്ററും വെച്ച് പ്രതിനിധീകരിക്കാം കൂടാതെ എന്താണ് ഈ കറണ്ട് സ്രോതസ്സു രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള ഷോർട്ട് സർക്യൂട്ടിൽ കറന്റ് ഒഴുകുന്നു ഈ റെസിസ്റ്റർ RN എന്നാൽ ഒന്നുമല്ല മറിച്ച് രണ്ട് ടെർമിനലുകളിലേക്ക് നോക്കുന്ന പ്രതിരോധം ആണ് അവ സ്വതന്ത്ര സ്രോതസ്സുകൾ നിർജ്ജീവമാക്കുകയോ അസാധുവാക്കുകയോ ചെയ്യുന്നു അതായത് അവയെ 0 എന്ന് പറയുന്നു അതിനാൽ കൃത്യമായി തെവെനിൻ സിദ്ധാന്തം പോലെ തന്നെയാണ് ഇത് ഇപ്പോൾ അതേ സർക്യൂട്ട് N നെ അതിന്റെ തെവെനിനിന്റെ തുല്യമായ Vth എന്നത് Rth യോടൊപ്പമുള്ള ശ്രേണിയോ അല്ലെങ്കിൽ RN ന് സമാന്തരമായ നോർട്ടൺ തത്തുല്യമോ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാം തീർച്ചയായും അത് Rth ന് തുല്യമാണ് ഈ രണ്ടിനും ഇടയിലുള്ള സർക്യൂട്ടിനുള്ള തത്തുല്യമായവ വീണ്ടും ഈ രണ്ട് ടെർമിനലുകളിലും 1 1 പ്രൈമിലും തത്തുല്യമായവ ചെയ്യുന്നു അതിന്റെ അർത്ഥമെന്താണ് ഏതെങ്കിലും സർക്യൂട്ട് ടെർമിനലുകൾ ഇവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് 1 1 പ്രൈമിലേക്കാണ് നിങ്ങൾ ഫുൾ സർക്യൂട്ടിലേക്കോ തെവെനിനിലേക്കോ ബന്ധിപ്പിച്ചിരിക്കുന്നു തത്തുല്യമായ അല്ലെങ്കിൽ നോർട്ടൺ സർക്യൂട്ടിലേക്കു ഈ ടെർമിനലുകളിലെ വൈദ്യുതധാരകളും വോൾട്ടേജുകളും തുല്യമായിരിക്കും അതിനാൽ നിങ്ങൾ ബന്ധിപ്പിക്കുന്ന സർക്യൂട്ടിലുള്ളവയും സമാനമായിരിക്കും അതിനാൽ ഈ സർക്യൂട്ടിലെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം Vth IN എന്നീ മൂല്യങ്ങൾ തമ്മിലുള്ള ബന്ധം ആണ് ഇവ രണ്ടും പരസ്പരം കൃത്യമായി തുല്യമാണ് കാരണം ഈ സർക്യൂട്ട് ഇതിന് തുല്യമാണ് അതിനാൽ ഇവ രണ്ടും തമ്മിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് പരിഗണിച്ച് IN Vth എന്നിവ തമ്മിലുള്ള ബന്ധം എളുപ്പത്തിൽ കണ്ടെത്താനാകും കാരണം ഈ സർക്യൂട്ടിനും ഈ സർക്യൂട്ട് വോൾട്ടേജ് ഉണ്ടായിരിക്കണം തുല്യമായ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും തെവെനിൻ കേസിൽ ഉള്ളത് ഈ കേസിൽ Vth എന്നത് യഥാർത്ഥത്തിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജാണ് കാരണം Rth ലൂടെ കറന്റ് ഫ്ലോ ഇല്ല അതാണ് Vth ന്റെ നിർവചനം ഈ സാഹചര്യത്തിൽ നിങ്ങൾ 1 1 പ്രൈം എന്നിവയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം RN ലേക്ക് ഒഴുകുന്നു അതിനാൽ 1 1 പ്രൈമുകളിലെ വോൾട്ടേജ് ലളിതമായി IN × RN അല്ലെങ്കിൽ IN × Rth ആയിരിക്കും ഇത് തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ തെവെനിൻ വോൾട്ടേജും നോർട്ടൺ കറണ്ടും തമ്മിലുള്ള ബന്ധമാണ്